ഹായ് ഈ പ്രത്യേക മൊഡ്യൂളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓസിലേറ്ററുകളിലേക്ക് നോക്കുന്ന ഒരു പ്രഭാഷണ പരമ്പരയാണ് തുടങ്ങുന്നത് കൃത്യമായി ഓസിലേറ്ററുകൾ എന്താണെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടു തുടർന്ന് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ഓസിലേറ്ററായി ഉപയോഗിക്കാമെന്ന് നമ്മൾ കണ്ടു തുടർന്ന് നമ്മൾ പലതരം ഓസിലേറ്ററുകളും മാനദണ്ഡങ്ങളും കണ്ടു എന്താണ് മാനദണ്ഡം ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലൂടെ ഓസിലേറ്ററിന്റെ ഇൻപുട്ടിലേക്ക് തിരികെ നൽകുന്ന output വോൾട്ടേജിന്റെ ഘട്ടം മാറ്റം 00 ആയിരിക്കണം രണ്ടാമത്തെ വ്യവസ്ഥ നേട്ടവും ഫീഡ്ബാക്ക് ഘടകവുമായ ബീറ്റ 1 നെക്കാൾ വലുതോ തുല്യമോ ആയിരിക്കണം തുടക്കത്തിൽ നമ്മൾ ഇത് 1 ൽ കൂടുതൽ ആക്കിയിട്ട് ആണ് ആന്ദോളനങ്ങൾ ആരംഭിക്കുക തുടർന്ന് ആന്ദോളനങ്ങൾ നിലനിർത്താൻ നമ്മൾ അതിനെ 1 ന് തുല്യമാക്കുന്നു R C എന്നിവയുടെ ഉപയോഗം നമ്മൾ കണ്ടു അതിനാൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലെ റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും ഉപയോഗിച്ച് നമുക്ക് phase ഷിഫ്റ്റ് ഓസിലേറ്റർ രൂപകൽപ്പന ചെയ്യാൻ കഴിയും ഓസിലേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ആംപ്ലിഫയർ നിങ്ങൾക്ക് ഒരു phase ഷിഫ്റ്റും നൽകാത്ത ചില കേസുകളുണ്ടെന്ന് നമ്മൾ കണ്ടു ആ പ്രത്യേക സാഹചര്യത്തിൽ ഘട്ടം മാറ്റമില്ലാതെ നിങ്ങൾ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉപയോഗിക്കണം കാരണം ആംപ്ലിഫയറും outputഉം ഒരു ഘട്ട ഷിഫ്റ്റും നൽകുന്നില്ല അതായത് ഇൻപുട്ടിനോടനുബന്ധിച്ച് ആംപ്ലിഫയറിന്റെ output അതേ ഘട്ടത്തിലാണ് അത്തരം സന്ദർഭങ്ങളിൽ അതേ ഘട്ടം ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി ഓസിലേറ്ററിന്റെ ഇൻപുട്ടിലേക്ക് പോകും അതിനാൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന് ഏതെങ്കിലും തരത്തിലുള്ള ഘട്ടം മാറ്റം ഉണ്ടാകരുത് വെയ്ൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന് ഒരു കേസുണ്ടായിരുന്നു ഈ RC ഓസിലേറ്ററുകൾ കുറഞ്ഞ ആവൃത്തിയിൽ ഉപയോഗിക്കുന്ന ഓസിലേറ്ററുകളാണ് ഉയർന്ന ആവൃത്തിക്കായി നമ്മൾ L ഉപയോഗിക്കുന്ന ഓസിലേറ്ററുകൾ ഉപയോഗിക്കണം അതായത് L ഇൻഡക്റ്ററും C കപ്പാസിറ്ററുമാണ് അതിനാൽ L C എന്നിവ റിയാക്ടൻസ് അല്ലെങ്കിൽ റിയാക്ടീവ് ഘടകങ്ങളായി ഉപയോഗിക്കുന്ന ഓസിലേറ്റർ ഇവയാണ് ടാങ്ക് ഓസിലേറ്ററുകളായ L C ഓസിലേറ്ററുകൾ ഓസിലേറ്ററി സിഗ്നൽ സൃഷ്ടിക്കുന്നതിന് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ കണ്ടു ടാങ്ക് സർക്യൂട്ടിനായി ഒരു ഇൻഡക്റ്റർ കണക്റ്റുചെയ്യുമ്പോൾ കപ്പാസിറ്റർ ചാർജ്ജ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ എങ്ങനെ ആരംഭിക്കാമെന്ന് നമ്മൾ കണ്ടു ഇൻഡക്റ്റർ കാന്തികമായി ചാർജ് ചെയ്യുകയും കപ്പാസിറ്ററിലേക്ക് തിരികെ ഡിസ്ചാർജ് ചെയ്യുകയും വിപരീത ധ്രുവത്തിൽ ചാർജ് ചെയ്യുകയും ചെയ്യുന്നു എൽസി ഓസിലേറ്ററുകളുടെ കാര്യത്തിൽ ലെൻസ് നിയമം കാരണം ഈ വിപരീത ധ്രുവത വരുന്നു എൽ സി എന്നിവ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസിലാക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2 തരം ഓസിലേറ്ററുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ആദ്യത്തേത് ഹാർട്ട്ലി ഓസിലേറ്ററും രണ്ടാമത്തേത് കോൾപിറ്റ്സ് ഓസിലേറ്ററുമായിരുന്നു ഇപ്പോൾ ഏത് ഓസിലേറ്ററിൽ എത്ര കപ്പാസിറ്ററുകളും എത്ര ഇൻഡക്ടറുകളും ഉപയോഗിക്കണമെന്ന് മനസിലാക്കാനുള്ള നമ്മളുടെ തന്ത്രം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഒരു കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ ഇത് 2 കപ്പാസിറ്ററുകളും 1 ഇൻഡക്ടറുമായിരുന്നുവെന്ന് എളുപ്പത്തിൽ പറയാൻ കഴിയുമെന്ന് നിങ്ങൾ കണ്ടു ഹാർട്ട്ലി ഓസിലേറ്ററിൽ 2 ഇൻഡക്ടറുകളും 1 കപ്പാസിറ്ററും ആയിരുന്നു കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് വിളിക്കുന്ന മറ്റൊരു തരം ഓസിലേറ്ററിന്റെ കാര്യം നമുക്ക് നോക്കാം നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിലേക്ക് പോകുന്നതിനുമുമ്പ് പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി എന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതിനാൽ പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾ മനസിലാക്കണം കാരണം പീസോ റെസിസ്റ്റർ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുമ്പോൾ വളരെയധികം ആശയക്കുഴപ്പമുണ്ടാക്കും നിർവചനം പീസോ ഇലക്ട്രിക് ആയിരിക്കും പീസോ ഇലക്ട്രിക് നിർവചനം എന്താണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് പീസോ റെസിസ്റ്ററാണ് അതിനാൽ ആശയക്കുഴപ്പത്തിലാകരുത് ഒരു മർദ്ദം പ്രയോഗിക്കുമ്പോൾ വോൾട്ടേജിലെ മാറ്റം കാണുന്ന ക്രിസ്റ്റലുകൾ ആണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലുകൾ ചില ക്രിസ്റ്റലുകൾ പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി കാണിക്കുന്നു സമ്മർദ്ദം പ്രയോഗിക്കുന്നത് വോൾട്ടേജിൽ മാറ്റം കാണിക്കും മറ്റൊന്ന് പീസോ റെസിസ്റ്റീവ് ആണ് ബലമോ സമ്മർദ്ദമോ പ്രയോഗിക്കുന്നത് പ്രതിരോധത്തിൽ മാറ്റം കാണിക്കും അതിനാൽ പീസോ റെസിസ്റ്റീവ് മെറ്റീരിയലിലെ പ്രതിരോധത്തിൽ ഒരു മാറ്റമുണ്ട് അതിനാൽ കൃത്യമായ ആവൃത്തി ഉപയോഗിച്ച് വൈദ്യുത സിഗ്നൽ സൃഷ്ടിക്കുന്നതിന് ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ക്രിസ്റ്റലിന്റെ വൈബ്രേറ്റിംഗ് മെക്കാനിക്കൽ അനുരണനം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ഇലക്ട്രോണിക് ഓസിലേറ്റർ സർക്യൂട്ടാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ അതിനാൽ നമ്മൾ ഈ ക്രിസ്റ്റൽ ഉപയോഗിക്കുകയും ക്രിസ്റ്റലിന്റെ output എടുക്കുകയും ചെയ്യുന്നു അത് ഒരു വൈദ്യുത സിഗ്നലാണ് ഈ പ്രത്യേക ക്രിസ്റ്റലിന്റെ മെക്കാനിക്കൽ അനുരണനം മൂലമാണ് ഈ വോൾട്ടേജ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമുക്ക് പറയാം നമ്മൾ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇത് എങ്ങനെ യാന്ത്രികമായി പ്രതിധ്വനിക്കും നമ്മൾ കുറച്ച് സമ്മർദ്ദം ചെലുത്തുമ്പോൾ അത് പ്രതിധ്വനിക്കാൻ തുടങ്ങും ഈ അനുരണനം വൈബ്രേറ്റിംഗ് ക്രിസ്റ്റൽ പീസോ ഇലക്ട്രിക് മെറ്റീരിയലിലൂടെ പിടിക്കപ്പെടും കൂടാതെ വൈദ്യുത സിഗ്നലിൽ മാറ്റമുണ്ടാകും ഓരോ ക്രിസ്റ്റലിനും അതിന്റേതായ ആവൃത്തി ഉണ്ട് സ്ഥിരമായ ആവൃത്തി കൈവശം വയ്ക്കുന്നവ കൂടുതൽ സ്ഥിരത സൂചിപ്പിക്കുന്നു അതിനാൽ ഓരോ ക്രിസ്റ്റലിനും അതിന്റേതായ ആവൃത്തി ഉണ്ട് അതിന് സ്ഥിരമായ ആവൃത്തി പ്രതികരണം നിലനിർത്താൻ കഴിയും അതായത് കൂടുതൽ ആവൃത്തി സ്ഥിരതയ്ക്ക് കൂടുതൽ മുൻഗണന ഉണ്ടാവും അതിനാൽ നിങ്ങൾ ഒരു സ്ഥിരതയുള്ള ഓസിലേറ്റർ രൂപകൽപ്പന ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റ് തരത്തിലുള്ള ഓസിലേറ്ററുകളേക്കാൾ ക്രിസ്റ്റൽ ഓസിലേറ്ററുകളാണ് അഭികാമ്യം നമ്മൾ സമ്മർദ്ദം പ്രയോഗിക്കുമ്പോൾ ക്രിസ്റ്റൽ വികലമാവുകയാണ് ഇത് നീങ്ങുന്നതായി നിങ്ങൾക്ക് കാണാം സ്ലൈഡ് കാണുക നമ്മൾ ഒരു മെക്കാനിക്കൽ മർദ്ദം പ്രയോഗിക്കുമ്പോൾ വോൾട്ടേജിൽ ഒരു മാറ്റമുണ്ണ്ടാവുന്നുണ്ട് നിങ്ങൾ ഈ മീറ്ററിലേക്ക് നോക്കുക മർദ്ദം പ്രയോഗിക്കുമ്പോൾ വോൾട്ടേജ് വർദ്ധിന്നു മർദ്ദം റിലീസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് തിരികെ വരുന്നു അതിനാൽ സമ്മർദ്ദം പ്രയോഗിക്കുന്നത് വോൾട്ടേജിലോ സിഗ്നലിലോ വരുന്ന മാറ്റത്തിന് കാരണമാകും ക്രിസ്റ്റലിന്റെ മുഖങ്ങളിലുടനീളം സമ്മർദ്ദം പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ ക്രിസ്റ്റൽ വൈബ്രേറ്റുചെയ്യുകയും A C വോൾട്ടേജ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു ക്രിസ്റ്റൽ A C വോൾട്ടേജിന് വിധേയമാണെങ്കിൽ അത് വൈബ്രേറ്റുചെയ്യുന്നു ഇത് ക്രിസ്റ്റലിന്റെ യാന്ത്രിക വികലത്തിന് കാരണമാകുന്നു ഇപ്പോൾ ഞാൻ ക്രിസ്റ്റൽ ഓസിലേറ്ററുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ക്രിസ്റ്റൽ തരങ്ങൾ എന്താണെന്നും നമുക്ക് ഏത് തരം ഉപയോഗിക്കാമെന്നും മനസിലാക്കണം അതിനാൽ നമ്മൾ ക്രിസ്റ്റൽ തരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യത്തേത് സ്വാഭാവികമായ ക്രിസ്റ്റൽ തരങ്ങളും രണ്ടാമത്തേത് കൃത്രിമമായി സംഭവിക്കുന്ന ക്രിസ്റ്റലുകളും ആണ് റോച്ചൽ ഉപ്പിന് ഏറ്റവും വലിയ പീസോ ഇലക്ട്രിക് പ്രവർത്തനം ഉണ്ട് പക്ഷേ യാന്ത്രികമായി ദുർബലമാണ് ഏറ്റവും വലിയ പീസോ ഇലക്ട്രിക് പ്രവർത്തനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മെക്കാനിക്കൽ മർദ്ദത്തിലെ ഒരു ചെറിയ മാറ്റം output വോൾട്ടേജിൽ വലിയ മാറ്റത്തിന് കാരണമാകുന്നു എന്നതാണ് എങ്കിലും യാന്ത്രികമായി ഇത് ദുർബലമാണ് അതിനാൽ യാന്ത്രികമായി അവ വളരെ ദുർബലവും ഉയർന്ന മെക്കാനിക്കൽ സമ്മർദ്ദങ്ങളെ നേരിടാൻ ആയിട്ട് ശക്തവുമല്ല അതിനാലാണ് അവ കൂടുതലും മൈക്രോഫോണുകളിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയും ഞാൻ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഒരു വോൾട്ടേജ് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സെൻസിറ്റീവ് ആയിരിക്കണം എന്ന് അപ്പോൾ നമുക്ക് റോച്ചൽ ഉപ്പ് ഉപയോഗിക്കാം ടൂർമലൈൻ എന്ന മറ്റൊരു ക്രിസ്റ്റൽ നമുക്ക് നോക്കാം ഈ ക്രിസ്റ്റലിന് കുറഞ്ഞ പീസോ ഇലക്ട്രിക് എഫക്ട് ഉണ്ട് പക്ഷേ യാന്ത്രികമായി ഇത് ശക്തമാണ് ഇത് ഏറ്റവും ചെലവേറിയതാണ് മൂന്നാമത്തേത് ക്വാർട്സ് റോച്ചൽ ഉപ്പും ടൂർമലൈൻ തമ്മിലുള്ള മിശ്രിതമാണ് ക്വാർട്സ് ഇത് എളുപ്പത്തിൽ ലഭ്യമാണ് ഓസിലേറ്ററുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്നു അതിനാൽ ഈ ക്വാർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നും ആപ്ലിക്കേഷനുകൾ എന്താണെന്നും ചിന്തിക്കുക വാച്ച് എന്താണ് ചെയ്യുന്നത് വാച്ചിൽ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ടോ കൃത്രിമമായി സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ലിഥിയം ടാന്റലൈറ്റ് ഗാലിയം ഫോസ്ഫേറ്റ് ലങ്കാസൈറ്റ് എന്നിവ ഉദാഹരണമാണ് അതിനാൽ ഇവയെല്ലാം കൃത്രിമമായി സംഭവിക്കുന്ന ക്രിസ്റ്റലുകളാണ് ഇപ്പോൾ നമുക്ക് ക്രിസ്റ്റൽ ഓസിലേറ്റർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന് നോക്കാം അതിനാൽ ഇവിടെ നമ്മൾ കാണുന്നത് ട്യൂണഡ് സർക്യൂട്ട് ഓസിലേറ്ററാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലുകൾ അതിന്റെ അനുരണന ടാങ്കായി ഉപയോഗിക്കുന്നു സ്വാഭാവിക ഷഡ്ഭുജാകൃതിൽ ഉള്ള ക്വാർട്സ് ചതുരാകൃതിയിൽ മുറിക്കുന്നു അതിനാൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ നിർമ്മിക്കാൻ നമ്മൾ ഷഡ്ഭുജാകൃതിയിലുള്ള ക്വാർട്സ് ക്രിസ്റ്റലുകൾ മുറിച്ച് ചതുരാകൃതിയിൽ ആക്കിയിട്ട് ഉപയോഗിക്കുന്നു ഇപ്പോൾ ഈ വ്യക്തമായ ക്രിസ്റ്റൽ 2 മെറ്റൽ പ്ലേറ്റുകൾക്കിടയിൽ സ്ഥാപിക്കുകയോ mount ചെയ്യുകയോ ചെയ്യുന്നു പ്രവർത്തിക്കാത്തപ്പോൾ മെക്കാനിക്കൽ mounting കാരണം ഇത് കപ്പാസിറ്റൻസിന് തുല്യമാണ് നിങ്ങൾക്ക് ഒരു ചാലക പ്ലേറ്റ് ഉള്ളതിനാൽ അത് പ്രവർത്തിക്കാത്തപ്പോൾ ചില ഡൈലെക്ട്രിക് മെറ്റീരിയലുകളാൽ വേർതിരിച്ച 2 ചാലക പ്ലേറ്റുകൾ പോലെയാണ് കാണപ്പെടുന്നത് ഇപ്പോൾ വൈബ്രേഷൻ അതായത് ആന്തരിക ആവൃത്തി വൈബ്രേഷൻ മൂലമുള്ള മാസും ക്രിസ്റ്റൽ നിഷ്ക്രിയത മൂലമുള്ള inertiaഉം കപ്പാസിറ്റൻസ് C പ്രതിനിധീകരിക്കുന്നത് ചില കാഠിന്യത്തെയും സൂചിപ്പിക്കുന്നു അതിനാൽ വൈബ്രേഷനിൽ നമുക്ക് ഈ 3 ഘടകങ്ങളായ R L C എന്നിവയുണ്ട് ഇത് പ്രവർത്തിക്കാത്തപ്പോൾ ഒരു കപ്പാസിറ്റർ മാത്രമാണ് എന്നാൽ ഇത് പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രതിരോധം ഉണ്ടാകും ആന്തരിക സംഘർഷ വൈബ്രേഷൻ കാരണം L ഉണ്ടാകും ക്രിസ്റ്റൽ നിഷ്ക്രിയതയെ സൂചിപ്പിക്കുന്ന പിണ്ഡം കാരണം കുറച്ച് കാഠിന്യവും കപ്പാസിറ്റർ C പ്രതിനിധീകരിക്കുന്നു അങ്ങനെ ഈ ആർഎൽസി ചിത്രത്തിലേക്ക് വരുന്നു ഇപ്പോൾ ആർഎൽസി ഒരു അനുരണന സർക്യൂട്ട് ഉണ്ടാക്കുന്നു ഫ്രീക്വൻസി എഫ്ആർ വിശകലനം ചെയ്യുന്നതിന് അതിനാൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ അല്ലെങ്കിൽ ട്യൂൺ ചെയ്ത സർക്യൂട്ട് പ്രവർത്തനക്ഷമമല്ലാത്തപ്പോൾ അത് ഒരു കപ്പാസിറ്റൻസായി പ്രവർത്തിക്കുന്നു അത് പ്രവർത്തനക്ഷമമാകുമ്പോൾ അതായത് വൈബ്രേറ്റുചെയ്യുമ്പോൾ അതിന് തുല്യമായ R L C എന്നിവ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി

അതിനാൽ ഉയർന്ന ആവൃത്തിക്ക് കനം ചെറുതായിരിക്കണം ഇത് യാന്ത്രികമായി അതിനെ ദുർബലമാക്കുന്നു അതിനാൽ അത്തരം ഓസിലേറ്ററുകളുടെ പരിധി 200 ഹെർട്സ് മുതൽ 300 കിലോഹെർട്സ് വരെയാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആവൃത്തി നിർണ്ണയിക്കുന്നത് ഇങ്ങനെയാണ് ഇത് കട്ടിയുള്ളതിനെ ആശ്രയിച്ചിരിക്കും മനസിലാക്കാൻ വേണ്ടി ചെയ്യുകയാണ് നമുക്ക് ഇത് വളരെ നേർത്തതാക്കാൻ കഴിയില്ല അല്ലാത്തപക്ഷം അത് യാന്ത്രികമായി ദുർബലമാകും നമ്മളുടെ ഓസിലേഷനുകളുടെ പരിധി 200 അല്ലെങ്കിൽ 300 കിലോഹെർട്സ് ആയി പരിമിതപ്പെടുത്തണം നമുക്ക് മറ്റൊരു കാര്യം നോക്കാം അനുരണന അവസ്ഥ സംഭവിച്ചുകഴിഞ്ഞാൽ സീരീസ് ആർഎൽസി ലെഗിന്റെ പ്രതിപ്രവർത്തനം Xl ന് തുല്യമാണ് അതുപോലെതന്നെ 2Xcക്കും അതിനാൽ ഈ അവസ്ഥ ഉണ്ടാകുമ്പോൾ അനുരണനം സംഭവിക്കാൻ തുടങ്ങും ഈ അവസ്ഥയിലെ ഇംപെഡൻസ് മിനിമം ആണ് ഇത് റെസിസ്റ്റൻസ് R ആണ് അതിനാൽ റെസിസ്റ്റൻസ് സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസി നേരത്തെ നൽകിയ റെസൊണന്റ് ഫ്രീക്വൻസിക്ക് തുല്യമാണ് അതിനാൽ അത് പറയുന്നത് അനുരണന അവസ്ഥ സംഭവിച്ചുകഴിഞ്ഞാൽ Xl Xc ന് തുല്യമായിരിക്കും ഏത് സാഹചര്യത്തിൽ ആയിരിക്കും ഇംപെഡൻസ് R ഏറ്റവും കുറവായിരിക്കുന്നത് അതിനാൽ സീരീസ് അനുരണന ആവൃത്തി D ന് തുല്യമാണ് അതിനാൽ സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഫോർമുല നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു സമാന്തര അനുരണനം അല്ലെങ്കിൽ ആന്റി റെസൊണൻസ് അവസ്ഥ ഉണ്ടായാലോ സീരീസ് റെസൊണന്റ് ലെഗിന്റെ പ്രതിപ്രവർത്തനം മൌണ്ടിംഗ് കപ്പാസിറ്റർ Cmന്റെ പ്രതിപ്രവർത്തനത്തിന് തുല്യമാകുമ്പോൾ മറ്റൊരു പ്രതിപ്രവർത്തന അവസ്ഥ സംഭവിക്കുന്നു നിങ്ങൾ ഇവിടെ നോക്കിയാൽ മൌണ്ടിംഗ് കപ്പാസിറ്റർ ഉണ്ട് സ്ലൈഡ് 1653 കാണുക മൌണ്ടിംഗ് കപ്പാസിറ്റർ Cm ഉണ്ട് ഒരു അനുരണനം ആരംഭിക്കുമ്പോൾ അവയുടെ Xl Xc ന് തുല്യമായിരിക്കും സീരീസ് റെസൊണൻസ് ലെഗിന്റെ പ്രതിപ്രവർത്തനം മൌണ്ടിംഗ് കപ്പാസിറ്ററിന്റെ പ്രതിപ്രവർത്തനത്തിന് തുല്യമാകുമ്പോൾ പ്രതിപ്രവർത്തന അവസ്ഥ സംഭവിക്കുകയാണെങ്കിൽ എന്തുചെയ്യും അതായത് ഈ സീരീസ് ഘടകങ്ങൾ കാരണം സംഭവിക്കുന്ന പ്രതിപ്രവർത്തനം മൌണ്ടിംഗ് കപ്പാസിറ്ററിന് തുല്യമാണ് അതിനാൽ സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസിയിൽ സ്ലൈഡിലെ ഗ്രാഫ് കാണുക നിങ്ങൾക്ക് y ആക്സിസിൽ output ഇംപെഡൻസ് കാണാനും x ആക്സിസിൽ സമാന്തര അനുരണന ആവൃത്തി കാണാനും കഴിയും അതിനാൽ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഇത് ക്രിസ്റ്റൽ ഫ്രീക്വൻസി ആണ് അത് fs പോലുള്ള ശ്രേണിയിലായിരിക്കുമ്പോൾ ഈ അനുരണനം ഇംപെഡൻസ് കുറയുന്നതിന് കാരണമാകും അത് സമാന്തര അനുരണനമാകുമ്പോൾ fp ആണ് അത് വീണ്ടും ഒരു കൊടുമുടിയിലെത്തും ഒടുവിൽ ഇത് വീണ്ടും താഴേക്കു വീഴും അതിനാൽ ആന്ദോളനങ്ങൾ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് സീരീസ് അനുരണനത്തിലായിരിക്കുമ്പോൾ സമാന്തര അനുരണനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ output ഇംപെഡൻസ് എങ്ങനെയായിരിക്കുമെന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത്

അതിനാൽ നിങ്ങൾ സ്ഥിരതയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ താപനില വാർദ്ധക്യം മുതലായവ കാരണം ക്രിസ്റ്റലിന്റെ ആവൃത്തി സമയത്തിനനുസരിച്ച് അല്പം മാറുന്നു ഇപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്റ്റൽ ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു ആയുസ്സ് ഉണ്ട് അതിനാൽ സമയം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ താപനില മാറുമ്പോൾ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് പ്രായമാകുമ്പോൾ ക്രിസ്റ്റലുകളുടെ ആവൃത്തി അല്പം മാറുന്നു അതിനാൽ താപനില സ്ഥിരത എന്നതു ഒരു ഡിഗ്രി സെന്റിഗ്രേഡിന് ഹെർട്സ് അല്ലെങ്കിൽ മെഗാ ഹെർട്സ് താപനിലയിലെ ഡിഗ്രിയിലെ ആവൃത്തിയിലെ മാറ്റം ആണ് താപനിലയിലെ 1 ഡിഗ്രി സെന്റിഗ്രേഡ് മാറ്റത്തിന് മെഗാഹെർട്സിൽ ആവൃത്തി 10 മുതൽ 12 ഹെർട്സ് വരെ മാറുന്നു നമ്മൾ മെഗാഹെർട്സിനെക്കുറിച്ച് സംസാരിക്കുന്നതിനാൽ ഇത് വളരെ ചെറുതാണ് മെഗാഹെർട്സിൽ എനിക്ക് 10 മുതൽ 12 വരെ ഹെർട്സ് മാറ്റം ഉണ്ടെങ്കിൽ അത് വളരെ ചെറുതാണ് ഇത് 0 201 ശതമാനം അല്ലെങ്കിൽ 0 1 ശതമാനം കുറവായിരിക്കും ഇത് വളരെ കുറവാണ് അതുകൊണ്ടാണ് മെഗാഹെർട്സ് ശ്രേണിയിൽ 1 മിനിറ്റിനുള്ളിൽ 10 മുതൽ 12 ഹെർട്സ് വരെ ഉണ്ടെങ്കിൽ താപനിലയിലെ മാറ്റം ആവൃത്തിയെ ഗണ്യമായി മാറ്റാൻ പോകുന്നില്ല എന്നു പറയുന്നത് അതുകൊണ്ടാണ് താപനിലയിലെ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആവൃത്തിയിലെ മാറ്റം വളരെ ചെറുതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അതിനാൽ എല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കും ഇത് സ്ഥിരമായി കണക്കാക്കപ്പെടുന്നു ഈ മാറ്റവും സ്വീകാര്യമല്ലെങ്കിൽ താപനില സ്ഥിരമായി നിലനിർത്തുന്ന ഒരു പെട്ടിയിൽ ക്രിസ്റ്റൽ സൂക്ഷിക്കണം അവയെ നിരന്തരമായ താപനില ഓവൻ അല്ലെങ്കിൽ നിരന്തരമായ താപനില ബോക്സ് എന്ന് വിളിക്കുന്നു അതിനാൽ ചില സന്ദർഭങ്ങളിൽ താപനിലയിലെ ഏറ്റവും ചെറിയ മാറ്റം പോലും അതായത് 1 ഡിഗ്രി പോലും 10 മുതൽ 12 ഹെർട്സ് വരെയുള്ള ആവൃത്തിയിൽ അല്പം മാറ്റം വരുത്തും 2 ഡിഗ്രിക്ക് ഇത് 24 ഹെർട്സ് ആയിരിക്കും 3 ഡിഗ്രി ഉണ്ടെങ്കിൽ അത് 36 ഹെർട്സ് ആയിരിക്കും എന്നാൽ ചില സർക്യൂട്ടുകളിൽ ആവൃത്തിയിലെ അത്രയും മാറ്റം സ്വീകാര്യമല്ലെങ്കിൽ നമുക്ക് കൃത്യമായ സ്ഥിരതയുള്ള ആവൃത്തി നൽകാൻ ക്രിസ്റ്റൽ ആവശ്യപ്പെടുന്നു താപനിലയുടെ ഫലമുണ്ടാകരുത് അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ സ്ഥിരമായ താപനില ബോക്സ് അല്ലെങ്കിൽ സ്ഥിരമായ താപനില ഓവൻ എന്ന് വിളിക്കുന്ന ഒരു ബോക്സിൽ സൂക്ഷിക്കണം ഞാൻ ദീർഘകാല സ്ഥിരതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി കാണുന്നത് ക്രിസ്റ്റൽ മെറ്റീരിയലിന്റെ പ്രായമാകൽ ആണ് ക്വാർട്സ് ക്രിസ്റ്റലിന് പ്രതിവർഷം 2 x 10 8 വരെയാണ് വാർദ്ധക്യ നിരക്ക് പ്രതിവർഷം 2 x 10 8 എന്നതു വളരെ ചെറുതാണ് അതായത് സൂപ്പർ സ്മാൾ അതുകൊണ്ട് അതിന്റെ ദീർഘകാല സ്ഥിരതയും മികച്ചതാവും അടുത്തത് ഹ്രസ്വകാല സ്ഥിരത ഒരു ക്വാർട്സ് ക്രിസ്റ്റലിൽ സമയത്തോടുകൂടിയ ഫ്രീക്വൻസി ഡ്രിഫ്റ്റ് സാധാരണ 106 ൽ 1 ഭാഗത്തിനേക്കാൾ കുറവാണ് ഇത് പ്രതിദിനം 0 0001 ആണ് ഇതും മുമ്പത്തെ സ്ലൈഡുകളിൽ ഒരു വാച്ചിൽ എന്താണുള്ളതെന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു ഈ സ്ലൈഡിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകി മൊത്തത്തിലുള്ള ക്രിസ്റ്റലിന് നല്ല ആവൃത്തി സ്ഥിരത ഉള്ളതായിട്ട് നിങ്ങൾ ഇവിടെ കാണുന്നു അതിനാൽ ഇത് കമ്പ്യൂട്ടറുകൾ കൌണ്ടറുകൾ ഇലക്ട്രോണിക് റിസ്റ്റ് വാച്ചുകളിലെ അടിസ്ഥാന സമയ ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു അതിനാൽ ഓസിലേറ്ററുകളെക്കുറിച്ചും പ്രത്യേകിച്ച് ക്രിസ്റ്റലുകളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ആവൃത്തി സ്ഥിരത വളരെ പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാം ക്രിസ്റ്റലുകൾ വളരെ സുസ്ഥിരമാകുമ്പോൾ കമ്പ്യൂട്ടറുകൾ കൌണ്ടറുകൾ നിങ്ങളുടെ ഡിജിറ്റൽ റിസ്റ്റ് വാച്ച് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സമയ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കാം അതിനാൽ ഇവയാണ് ക്രിസ്റ്റലിന്റെ പ്രയോഗങ്ങൾ അതിനാൽ ഇപ്പോൾ Fs Cequivalent Fp എന്നിവയ്ക്കുള്ള സമവാക്യം എന്താണെന്ന് നമ്മൾ മനസിലാക്കുന്നതിനാൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം ഒരു ക്രിസ്റ്റലിന് ഇൻഡക്റ്റർ L 2 ഹെൻറിയ്ക്ക് തുല്യമാണ് C 0 01 പിക്കോഫറഡിനും R 2 കിലോ ഓമിനും തുല്യമാണ് ഇതിന്റെ mounting കപ്പാസിറ്റൻസ് 2 പിക്കോഫറഡ് ആണ് സീരീസും സമാന്തര അനുരണന ആവൃത്തികളും കണക്കാക്കുക അതിനാൽ ചോദ്യവും പരിഹാരവും വളരെ എളുപ്പമാണ് നമുക്ക് Cm നൽകിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ Fs കാണണം അത് സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി ആണ് ഇത് L C യുടെ റൂട്ടിന് കീഴിൽ 1 by 2 pi ആണ് നിങ്ങൾ ഇത് പരിഹരിക്കുമ്പോൾ നിങ്ങൾക്ക് 1 125 മെഗാഹെർട്സ് ലഭിക്കും അതിനാൽ L2 ഹെൻറിയാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ C 0 01 ആണ് കൂടാതെ 2 ന്റെ റൂട്ടിന് കീഴിൽ 1 ബൈ 2 pi x 0 001 x10 12 വരെ എഴുതണം അത് നമ്മൾക്ക് fs 1 125 മെഗാഹെർട്സ് നൽകും Now we know fp is 1 by 2 pi under root of LCequivalent We have to find Cequivalent and now for finding Cequivalent we should know the formula CM into C divided by CM plus C We will put the value of CM which is 2 picofarad and CE is 0 So 2 into 10 12 into 0 01 into 10 12 divided by 2 into 10 12 plus 0 01 into 10 12 that will give us9 95 into10 15 farads fp 1 by 2 pi under root of LCequivalent ആണെന്ന് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ Cequivalent കണ്ടെത്തണം ഇപ്പോൾ സമവാക്യം കണ്ടെത്തുന്നതിന് സൂത്രവാക്യം നമുക്കു വേണം CM into C divided by CM plus C We will put the value of CM which is 2 picofarad and CE is 0 So 2 x 10 12 x0 01 x 10 12 divided by 2 x 10 12 0 01 x10 12 that will give us 9 അതിനാൽ fp യുടെ സമവാക്യത്തിൽ Cequivalent ന്റെ മൂല്യം പകരം വയ്ക്കുന്ന Cequivalent എന്താണെന്ന് ഇപ്പോൾ നമുക്കറിയാം We get 1 by 2 pi under root of L into 0 So when we solve this we will get the answer close to 1 നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം അതിനാൽ ഇപ്പോൾ ഇത് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ യുജെടി ഉദാഹരണമാണ് നമ്മൾ യുജെടി ഓസിലേറ്ററുകളിലേക്ക് പോകുന്നതിനുമുമ്പ് ക്രിസ്റ്റൽ ഓസിലേറ്ററുകളെക്കുറിച്ച് വേഗത്തിൽ മനസിലാക്കാം തുടർന്ന് അടുത്ത മോഡ്യൂളിൽ യുജെടി ഓസിലേറ്ററുകൾ എടുക്കും അതിനാൽ നമ്മൾ ഇതുവരെ കണ്ടത് ഓസിലേറ്ററിൽ ക്രിസ്റ്റലുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നതാണ് തുടർന്ന് പീസോ ഇലക്ട്രിക് ഗുണങ്ങൾ കാണിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള ക്രിസ്റ്റലുകൾ ലഭ്യമാണ് എന്നും തുടർന്ന് ഏത് ക്രിസ്റ്റലാണ് കൂടുതൽ സ്ഥിരതയുള്ളതെന്ന് നമ്മൾ കണ്ടു ഈ ക്രിസ്റ്റലിനെ എങ്ങനെ ഒരു ഓസിലേറ്ററായി ഉപയോഗിക്കാമെന്നും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള ഫ്രീക്വൻസി ഫോർമുലകൾ എന്താണെന്നും നമ്മൾ കണ്ടു ഇത് Fs ആണോ അല്ലെങ്കിൽ ഇത് Fp ആണോ എന്ന് എന്നിട്ട് നമ്മൾ കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു ഈ ക്രിസ്റ്റലുകൾ അങ്ങേയറ്റം സുസ്ഥിരമാണെന്നും അതിനാൽ അവ പല ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കുന്നുവെന്നും നമ്മൾ കണ്ടു അവ ഈ പ്രത്യേക മൊഡ്യൂളിൽ ചർച്ചചെയ്തു അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് phase ഷിഫ്റ്റ് ഓസിലേറ്റർ വെയ്ൻ ബ്രിഡ്ജ് ഓസിലേറ്റർ കോൾപിറ്റ്സ് ഓസിലേറ്റർ ഹാർട്ട്ലി ഓസിലേറ്റർ ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ എന്നിവ അറിയാം അടുത്ത മൊഡ്യൂളിൽ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ യുജെടി ഓസിലേറ്ററുകൾ എന്താണെന്ന് നോക്കാം അതിനാൽ പ്രത്യേക ക്രിസ്റ്റൽ ഓസിലേറ്ററുകളെക്കുറിച്ചുള്ള ഈ പ്രഭാഷണം നമ്മൾ നിർത്തി അടുത്ത മൊഡ്യൂളിൽ മറ്റ് തരത്തിലുള്ള ഓസിലേറ്ററുകൾ എന്താണെന്ന് നോക്കാം അതുവരെ നിങ്ങൾ ഈ സ്ലൈഡുകൾ നോക്കുക എന്താണ് ചെയ്യുന്നതെന്ന് നന്നായി മനസിലാക്കുക ഓസിലേറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും മുമ്പത്തെ മൊഡ്യൂളുകൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ തിരികെ പോയി മുമ്പത്തെ മൊഡ്യൂളുകൾ കാണുകയും Barkhausen മാനദണ്ഡം എന്താണെന്നും ഓസിലേറ്ററുകൾ എങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നും കാണുക അതിനാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണും അതുവരെ നിങ്ങൾ ശ്രദ്ധിക്കൂ